നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസിലാക്കിയത് ഹാർമോണിക് ഓസിലേറ്റർ ൽ പാർട്ടിക്കിൾ ഒരു ലെവലിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടുന്നത് |Δn| 1 എന്ന നിയന്ത്രണത്തിന് വിധേയമായി ആയിരിക്കുമെന്നാണ് ഇതിനേക്കാൾ കൂടുതൽ വ്യത്യാസം ഒരിക്കലും അനുവദനീയമല്ല അടുത്തതായി ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഐൻസ്റ്റൈൻസ് A കോയിഫിഷ്യന്റ് Einstein's A coefficient കാണാൻ നമുക്ക് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കാം അപ്പോൾ ഞാനിവിടെ ഹാർമോണിക് ഓസിലേറ്ററിന്റെ A കോയിഫിഷ്യന്റ് കാണുകയാണ് ഇതിനായി ഞാൻ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു ചാർജിൽ നിന്നും പുറത്തേക്ക് വരുന്ന റേഡിയേഷന്റെ നിരക്ക് നൽകുന്ന ക്ലാസിക്കൽ തിയറി അനുസരിച്ചുള്ള ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ട് ചാർജ് e ആക്സിലറേഷൻ a ആണെങ്കിൽ ക്ലാസിക്കൽ തിയറിയിൽ റേറ്റ് ഓഫ് റേഡിയേഷൻ ലാർമെർ ഫോർമുല Larmor's formula അനുസരിച്ച് എന്ന് എഴുതാം ഇവിടെ a എന്നത് ആക്സിലറേഷൻ c ലൈറ്റിന്റെ സ്പീഡ് സിംപിൾ ഹാർമോണിക് മോഷൻ നിൽ ഉള്ള ഒരു പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആക്സിലറേഷൻ ആകുന്നു നേരത്തെ എഴുതിയ ഇക്വേഷനിൽ a യ്ക്കു പകരം ഇത് സബ്സ്റ്റിട്യൂട് ചെയ്താൽ റേഡിയേഷൻ റേറ്റ് അപ്പോൾ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു ചാർജ് സങ്കല്പിച്ചാൽ അതിന്റെ ആയിരിക്കും ഒരു പിരീഡിലുള്ള ആവറേജ് dE dt എടുക്കുമ്പോൾ നമ്മൾ ഇതിനെ 0 T എന്ന ലിമിറ്റിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം നിങ്ങൾക്കറിയാം ആണെന്ന് അതുകൊണ്ട് ഇത്രയുമാണ് ചാർജുള്ള ഒരു പാർട്ടിക്കിൾ 𝜔 ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യുമ്പോൾ റേഡിയേറ്റ് ചെയ്യുന്ന എനർജി അടുത്തതായി ഹാർമോണിക് ഓസിലേറ്ററിന്റെ A കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കാം നമ്മൾ കണ്ടു ഹാർമോണിക് ഓസിലേറ്റർ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ എമിഷൻ റേറ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ ഉത്സർജിക്കപ്പെടുന്ന പാർട്ടിക്കിളിന്റെ എണ്ണത്തിനെ അതായത് dN dt യെ h𝜈 കൊണ്ട് ഗുണിച്ചതാണ് അതായത് ഇത് നമുക്ക് An→n 1 അതായത് A കോയിഫിഷ്യന്റ് ഉപയോഗിച്ച് മാറ്റി എഴുതിയാൽ ഈ ഇക്വേഷനിൽ An→n 1 അതായത് A കോയിഫിഷ്യന്റ് ക്വാണ്ടം മെക്കാനിക്സുമായി ബന്ധപ്പെട്ടു വരുന്ന ഒരു പദമാണ് കാരണം An→n 1 എന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റ് അഥവാ ഉത്തേജിത അവസ്ഥയിൽ നിന്നും ശോഷണം സംഭവിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് ഇതിനെ h𝜈 കൊണ്ട് ഗുണിച്ചാൽ ശോഷണത്തിന്റെ റേറ്റ് ലഭിക്കും n വളരെ വലിയ വാല്യൂ ആണെങ്കിൽ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് രണ്ടു റിസൾട്ടും സമാനമാവണം അതായത് ഇതിൽ നിന്നും ലഭിക്കുന്ന An→n 1 താഴെ ലിമിറ്റിലുള്ള n വാല്യൂവിനും ശരിയാകുമെന്ന് പ്രതീക്ഷിക്കാം An→n 1 കാണാനായി ഇവിടെ ഞാൻ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്തതായി നമ്മൾ ആംപ്ലിട്യൂഡ് A കാണേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് ഞാൻ ആംപ്ലിട്യൂഡ് A കാണുന്നത് n വളരെ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും എനർജി nh𝜈 ആയിരിക്കുമല്ലോ n വളരെ വലുതാകുമ്പോൾ ക്ലാസിക്കൽ തിയറി ഉപയോഗിച്ച് എനിക്ക് എനർജി എന്നെഴുതാൻ പറ്റും ഇവിടെ ഇടതുവശത്ത് ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ചുള്ള റിസൾട്ടും വലതുവശത്ത് ക്ലാസിക്കൽ തിയറി ഉപയോഗിച്ചുള്ള റിസൾട്ടുമാണ് അതേപോലെ നേരത്തെ എഴുതിയ ഇക്വേഷനിലും ഇടതുവശത്ത് ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ചുള്ള റിസൾട്ടും വലതുവശത്ത് ക്ലാസിക്കൽ തിയറി ഉപയോഗിച്ചുള്ള റിസൾട്ടുമാണ് അപ്പോൾ രണ്ടു ഇക്വേഷനിലും ക്വാണ്ടം റിസൾട്ട് ക്ലാസിക്കൽ റിസൾട്ട് എന്ന് യഥാക്രമം ഇടതുവശത്തും വലതുവശത്തും മാർക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ പറയാൻ കാരണം ഇടതു വശത്ത് ഇങ്ങനെ ഒരു പദം കിട്ടുന്നത് പ്രോബബിലിറ്റിയിലൂടെയും വലതു വശത്ത് കിട്ടിയത് ചാർജുള്ള പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യപ്പെടുമ്പോൾ റേഡിയേറ്റ് ചെയ്യുന്നു എന്ന ആശയത്തിലൂടെയുമാണ് മുകളിലത്തെ ഇക്വേഷനിൽ നിന്നും ആംപ്ലിട്യൂഡ് ഇവിടെ 𝜈 𝜔2 𝜋 എന്നെടുത്താൽ അതായത് ഈ A2 നേരത്തെ എഴുതിയ h𝜈An→n 1 ന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിട്യൂട് ചെയ്യാൻ പോവുകയാണ്

ഈ ഫോർമുല ക്വാണ്ടം മെക്കാനിക്കൽ ആണെന്ന് പറയാം ഇത് ലഭിക്കാനായി നമ്മൾ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളിവിടെ ക്ലാസിക്കൽ തിയറി അനുസരിച്ചുള്ള ട്രാൻസിഷൻ റേറ്റ് ക്വാണ്ടം തലത്തിൽ ഉണ്ടായേക്കാവുന്ന ട്രാൻസിഷൻ റേറ്റുമായി താരതമ്യം ചെയ്ത് അത് A കോയെഫിഷ്യന്റ് ഉപയോഗിച്ച് എഴുതിയിട്ടാണ് ഈ ഫോർമുല ലഭിച്ചിരിക്കുന്നത് ഇതേ രീതി നമുക്ക് മറ്റു പല സിസ്റ്റത്തിലും അവലംബിക്കാവുന്നതാണ് അത് ഞാൻ അവസാനം അസൈൻമെന്റ് പ്രോബ്ലം ആയി തരാം ഇവിടെ ഞാൻ സെലക്ഷൻ റൂൾ എന്താണെന്ന് കൂടി വിശദമാക്കാം അതായത് ആറ്റത്തിലെ ട്രാൻസിഷനുമായി ബന്ധപ്പെട്ട സെലക്ഷൻ റൂൾ ആറ്റത്തിന്റെ ഏറ്റവും സിംപിൾ രൂപം എടുക്കാം ഞാനിവിടെ ബോർ ഓർബിറ്റൽ വരയ്ക്കുകയാണ് പാർട്ടിക്കിൾ ഈ സർക്യൂലർ ഓർബിറ്റലിൽ കൂടി സഞ്ചരിക്കുന്നു ഇങ്ങനെ സർക്യൂലർ ഓർബിറ്റലിൽ സഞ്ചരിക്കുമ്പോൾ R ഓർബിറ്റിന്റെ റേഡിയസ് ആണെങ്കിൽ ഇതിനെ നമുക്ക് എന്നെഴുതാം അതുപോലെ 𝜔 എന്നത് പരിക്രമണ ഫ്രീക്വൻസി ആണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ ഒരേ ഒരു ഫ്രീക്വൻസി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് വലിയ n വാല്യൂ ആയിരിക്കുമ്പോൾ n ൽ നിന്നും n 𝞃 ലെവലിലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോൾ സാധ്യതയുള്ള റേഡിയേഷൻ ഫ്രീക്വൻസി 𝞃𝜔n ആണ് എന്നാൽ ക്ലാസിക്കൽ തിയറി അനുസരിച്ച് ഒരേ ഒരു റേഡിയേഷൻ ഫ്രീക്വൻസി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അത് പരിക്രമണ ഫ്രീക്വൻസി തന്നെ ആയിരിക്കും ഇതിനർത്ഥം കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിളുമായി ചേർന്നുപോകാൻ ഇവിടെ 𝞃 1 ആയിരിക്കണം ട്രാൻസിഷൻ ഉയർന്ന ലെവലിലേക്കോ താഴ്ന്ന ലെവലിലേക്കോ ആകാവുന്നതാണ് പക്ഷെ ലെവൽ വ്യത്യാസം മാക്സിമം 1 മാത്രമേ ആകാൻ പറ്റൂ ഈ ബോർ ഓർബിറ്റിൽ n എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് n പ്രതിനിധാനം ചെയ്യുന്നത് mvr nħ എന്ന കണ്ടീഷണലിലൂടെ ആംഗുലർ മൊമെന്റം L നെയാണ് അതിനർത്ഥം n എന്നത് ആംഗുലർ മൊമെന്റം L മായി ബന്ധപ്പെട്ട ക്വാണ്ടം നമ്പർ ആണ് എന്നാണ് സോമർഫെൽ കേസിൽ ഈ ക്വാണ്ടം നമ്പർ n നെ l എന്ന് വിളിച്ചു അപ്പോൾ L mvr lħ അപ്പോൾ l ന്റെ മാക്സിമം വ്യത്യാസം Δ l ∓ 1 ക്ലാസിക്കൽ തിയറി അനുസരിച്ച് ഇതിനേക്കാൾ കൂടുതൽ വ്യത്യാസം l ൽ അനുവദനീയമെങ്കിൽ പുറത്തേക്കുവരുന്ന റേഡിയേഷനിൽ അടിസ്ഥാന ഫ്രീക്വൻസിയ്ക്കു പുറമെ മറ്റു ഫ്രീക്വൻസികളും അതായത് ഉയർന്ന ഹാർമോണിക്സും ഉണ്ടാവണമായിരുന്നു എന്നാൽ ക്ലാസ്സിക്കൽ നിരീക്ഷണത്തിൽ കണ്ടിരിക്കുന്നത് ഒരേ ഒരു ഫ്രീക്വൻസി മാത്രമാണ് അത് പാർട്ടിക്കിളിന്റെ പരിക്രമണ ഫ്രീക്വൻസി തന്നെ ആയിരുന്നു അപ്പോൾ മാക്സിമം Δ l തീർച്ചയായും 1 മാത്രമാണ് ഇതാണ് മറ്റൊരു സെലക്ഷൻ റൂൾ നേരത്തെ ക്വാണ്ടം തിയറിയിൽ n l mn അഥവാ mz ക്വാണ്ടം നമ്പറുകളെ കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ അവിടെ നമ്മൾ കണ്ടത് l നു ∓ 1 വ്യത്യാസം അനുവദനീയമാണെന്നാണ് കൂടുതലായി കാൽക്യുലേഷൻ ചെയ്താൽ മനസിലാകും mz നും ∓ 1 വ്യത്യാസം അനുവദനീയമാണെന്ന് എന്നാൽ n നാകട്ടെ ഇപ്രകാരം ഒരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല ഇവിടെ സെലക്ഷൻ റൂളിലേക്ക് എത്തിച്ചേരുന്നതെങ്ങനെ എന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നതിന്റെ ഉദ്ദേശം കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിളിലൂടെ നമുക്ക് എങ്ങനെ ഇത്തരം അനുവദനീയവും അല്ലാത്തതുമായ ട്രാൻസിഷനുകളെ കുറിച്ചുള്ള അറിവ് ലഭിക്കും എന്നത് മനസിലാക്കി തരിക എന്നതാണ് ഇതിനു പുറമെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഇവിടെ വ്യക്തമാകും പാർട്ടിക്കിൾ എന്ന പ്രകാരം സർക്യൂലർ മോഷനിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന റേഡിയേഷൻ സർക്യൂലർലി പോളറൈസ്ഡ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി പറയാൻ കഴിയും Δ l ∓ 1 എന്ന ട്രാൻസിഷൻ സർക്യൂലർലി പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടാക്കുന്നു ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്കിവിടെ സംഗ്രഹിക്കാം നമ്മൾ കണ്ടത് ക്വാണ്ടം ക്ലാസിക്കൽ തമ്മിൽ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ മുഖേന ബന്ധിപ്പിച്ചതിലൂടെ നമുക്ക് അനുവദനീയമായ ട്രാൻസിഷനുകളെകുറിച്ച് ഒരു ഉൾകാഴ്ച ലഭിച്ചു ഇങ്ങനെ അനുവദനീയ ട്രാൻസിഷൻ കാണിക്കുന്ന കണ്ടീഷന് സെലക്ഷൻ റൂൾ എന്ന പദം ആണ് ഉപയോഗിച്ചത് ഇത് സ്പെക്ട്രോസ്കോപ്പി യിൽ വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ A കോയെഫിഷ്യന്റ് ഇവിടെ An→n 1 കണ്ടുപിടിച്ചു അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തുകൊണ്ട് An→n 1 മാത്രം An→n 2 എന്തുകൊണ്ട് ഇല്ല ഇതിനു കാരണം An→n 2 എന്നാൽ n ലെവലിൽ നിന്നും ലെവലിലേക്കുള്ള ട്രാൻസിഷൻ ആണ് അപ്പോൾ നിങ്ങൾക്കറിയാം n ന്റെ വ്യത്യാസം 2 ആയുള്ള ട്രാൻസിഷൻ ഹാർമോണിക് ഓസിലേറ്ററിന് അനുവദനീയമല്ല എന്നുള്ള കാര്യം അതുകൊണ്ടുതന്നെ An→n 1 ഉം An→n1 ഉം ട്രാൻസിഷൻ മാത്രമേ നോൺ സീറോ അല്ലാതെ ഉണ്ടാവുന്നുള്ളൂ "ഐൻസ്റ്റൈൻ A B കോയെഫിഷ്യന്റ്" വിശദീകരിച്ച ക്ലാസ്സിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ A കോയെഫിഷ്യന്റ് കിട്ടിക്കഴിഞ്ഞാൽ B കോയെഫിഷ്യന്റ് അതായത് സ്റ്റിമുലേറ്റഡ് എമിഷൻ അല്ലെങ്കിൽ അബ്സോർപ്ഷൻ കോയെഫിഷ്യന്റ് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞ കാര്യം താങ്ക് യൂ